അതിനാൽ നമ്മൾ സംസാരിക്കുന്ന താപ സെൻസറുകളെ ശരിക്കും നോക്കുമ്പോൾ എന്താണ് പ്രധാനം താപനില അളക്കൽ പ്രത്യേകിച്ച് കോൺടാക്റ്റ് അടിസ്ഥാനമാക്കി അല്ലാത്ത താപനിലയുടെ അളവ് വ്യത്യസ്ത ആപ്ലിക്കേഷനുകൾക്കായി നിരവധി തരം സെൻസറുകൾ ലഭ്യമാണ് നമ്മൾ യഥാർത്ഥത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് നിയോഡൈമിയം കാന്തങ്ങൾ ഹാൾ സെൻസറുകൾ ഉപയോഗിച്ചുകൊണ്ട് പരോക്ഷമായി താപനില അളക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന കാര്യമാണ് നിങ്ങൾക്കറിയാം നമ്മൾക്ക് കാന്തികക്ഷേത്രത്തിലെ മാറ്റം ഹാൾ സെൻസറുകൾ കൊണ്ട് അളക്കാൻ കഴിഞ്ഞു നമ്മൾ അതിലേക്ക് വരും എന്നാൽ നമ്മൾ യഥാർത്ഥത്തിൽ പരോക്ഷമായി താപനില നോക്കുന്നതിന് മുമ്പ് ഐആർ തെർമോമീറ്ററുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ കഥ നമുക്ക് പൂർത്തിയാക്കാം അവ അടിസ്ഥാനപരമായി കോൺടാക്റ്റ് ഇതര അപ്ലിക്കേഷനുകൾക്കായി ഉപയോഗിക്കുന്നു നിങ്ങൾ ആദ്യം ഐആർ തെർമോമീറ്ററർ മനസിലാക്കണം എന്നതാണ് പ്രധാന കാര്യം അതിന്റെ പിന്നിലെ ഭൌതികശാസ്ത്രത്തെയും മനസിലാക്കാൻ ആവശ്യമായ സമയം ചെലവഴിക്കേണ്ടതുണ്ട് ഒരു ഐആർ തെർമോമീറ്റർ എന്താണെന്ന് നോക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ നമുക്ക് കുറച്ച് സമയം മനസിലാക്കാൻ ശ്രമിക്കാം നിങ്ങൾ എല്ലാവരും തെർമോകപ്പിൾ കണ്ടതായിരിക്കണം അല്ലേ അടിസ്ഥാനപരമായി ഒരു ഐആർ തെർമോമീറ്റർ അതിന്റെ ബിസിനസ്സ് എന്താണ് 40000 അടി വീക്ഷണത്തിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുവെങ്കിൽ ഐആർ ചൂട് ആഗിരണം ചെയ്യുന്ന ഒരു ഉപകരണം ആവശ്യമാണെന്ന് മനസ്സിലാക്കും അത് നിങ്ങൾക്ക് ഔട്ട്പുട്ടിൽ കുറച്ച് വോൾട്ടേജ് നൽകണം അതിനാൽ നിങ്ങൾക്ക് ആത്യന്തികമായി കുറച്ച് വി ഔട്ട് ലഭിക്കേണ്ടതുണ്ട് ഈ വി ഔട്ട് എങ്ങനെ ലഭിക്കും ഈ വി ഔട്ട് ലേക്ക് നിങ്ങൾ എങ്ങനെ എത്തിച്ചേരും ഒരു ലളിതമായ തെർമോപൈലിന്റെ ചിത്രം വരയ്ക്കാം അത് പ്രധാനമായും ഒരു കൂട്ടം ഐആർ തെർമോകപ്പിൾ ശ്രേണിയിൽ ബന്ധിപ്പിച്ചിരിക്കുന്നതാണ് അതിനാൽ അതിനായി ആദ്യം ഒരു തെർമോകപ്പിളിന്റെ ചിത്രം വരയ്ക്കാം തെർമോകപ്പിൾ അടിസ്ഥാനപരമായി നിങ്ങൾക്ക് ഇതുപോലെ സൂചിപ്പിക്കാൻ കഴിയും നിങ്ങൾ ഇത് ഒരു ആംപ്ലിഫയറിലേക്ക്കൊണ്ടുപോകുന്നു ഇവിടെ വി ഔട്ട് സൃഷ്ടിക്കുന്നു അതിനാൽ ഇതാണ് പ്രശ്നത്തിന്റെ പ്രധാന നിർണായക ഘട്ടം ഇത് അടിസ്ഥാനപരമായി ഐആർ അബ്സോർബർ ആണ് അത് എല്ലാ ഐആർ താപത്തെയും ആഗിരണം ചെയ്യുന്നു ഈ ഭാഗം നിർണ്ണായകമാണ് ഇത് TREF താപനില റഫറൻസാണ് ഇതാണ് നിങ്ങൾ അളക്കുന്ന യഥാർത്ഥ താപനില ഒരു ലളിതമായ ആവിഷ്കരണം ഈ കാര്യത്തിലേക്ക് മടങ്ങുന്നു ഇവിടെ ലളിതമായ ഒരു ആവിഷ്കരണമാണ് ഇവിടെ ഈ സിസ്റ്റങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് വളരെ ലളിതമായ ഒരു സമവാക്യം എഴുതാം അത് ലളിതമായി പറയുന്നു Vout S × അതിനാൽ ഇത് TREF ആണ് എസ് സീബെക്ക് കോഫിഫിഷ്യന്റ് അല്ലാതെ മറ്റൊന്നുമല്ല ഇപ്പോൾ നിങ്ങൾക്കത് ഏത് തലത്തിലേക്കും കൊണ്ടുപോകാം നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഈ ആഗിരണ പ്രക്രിയയുടെ പിന്നിലെ ഭൌതികശാസ്ത്രം നിങ്ങൾ അറിഞ്ഞിരിക്കണം അവയെല്ലാം നിയന്ത്രിക്കുന്നത് പ്ലാങ്കിന്റെ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ Planck's law of blackbody radiationനിയമമാണ് റേഡിയേറ്റീവ് താപ കൈമാറ്റത്തിന്റെ സ്റ്റെഫെൻ ബോൾട്ട്സ്മാൻ നിയമവും അതിനാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം വീണ്ടും ഊന്നിപ്പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്തുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരു അനുഭവം നൽകാനാണ് നിങ്ങൾ ഐഒടിയെക്കുറിച്ചും ഐഒടികൾക്കായുള്ള രൂപകൽപ്പനയെക്കുറിച്ചും സംസാരിക്കുമ്പോൾ നിങ്ങൾ സെൻസിംഗിനായി നോക്കുമ്പോൾ സെൻസിംഗിന് പിന്നിലെ ഭൌതികശാസ്ത്രം മനസ്സിലാക്കണം പിന്നിലെ തത്വം അറിയണം ഒപ്പം ഇത് ഒരുമിച്ച് ഉപയോഗിച്ച് നൽകിയ അപ്ലിക്കേഷന്ആവശ്യമായ സെൻസർ നിർമ്മിക്കണം ഇത് തന്നിരിക്കുന്ന അപ്ലിക്കേഷന്ആവശ്യമായ സെൻസർ ഒരു തരത്തിലുള്ള സെൻസറിൽഎത്തിച്ചേരുന്നതിന് ഇവ രണ്ടിന്റെയും വിശദാംശങ്ങളിലേക്ക് കടക്കുകയല്ലാതെ മറ്റൊരു വഴി ഇല്ലെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യം ആണ് അതിനാൽ ഡിസൈൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാനുള്ള നിരവധി ചോയ്സുകൾ ഉണ്ടായിരിക്കണം നിങ്ങൾ ഏറ്റവും മികച്ച ചോയ്സ് തിരഞ്ഞെടുക്കുന്നു ഒപ്പം നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന രീതി ആപ്ലിക്കേഷനെ ആശ്രയിച്ചിരിക്കും നിങ്ങളുടെ മനസ്സിലുള്ള ആപ്ലിക്കേഷന്റെ അടിസ്ഥാനത്തിലുള്ളതാണ് നിങ്ങൾ ആത്യന്തികമായി തീരുമാനിക്കുന്നത് ഉദാഹരണത്തിന് മറ്റൊരു തരത്തിലുള്ള കോൺടാക്റ്റ് അല്ലാത്ത അളവ് എടുക്കുന്ന രീതി ഞാൻ കാണിച്ചുതരാം അടുത്ത ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് മറ്റൊരു തരം PIR സെൻസർ എന്ന് വിളിക്കുന്ന സെൻസർ കാണിച്ചുതരാം ഇത് അടിസ്ഥാനപരമായി ഒരു ഇലക്ട്രോണിക് സെൻസറാണ് ഇതിന് തത്ത്വംപിന്നിലെ ഭൌതികശാസ്ത്രം പൈറോഇലക്ട്രിസിറ്റി ആണ് ഇതിനർത്ഥം എന്താണ് ഇവിടെ തത്ത്വം പൈറോഇലക്ട്രിസിറ്റി ആണ് ഭൌതികശാസ്ത്രം തീർച്ചയായും നമുക്ക് കുറച്ച് കഴിഞ്ഞ് നോക്കാം പക്ഷേ കുറഞ്ഞ പക്ഷം ഇത്പൈറോഇലക്ട്രിസിറ്റി തത്വത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അത് അടിസ്ഥാനപരമായി നിങ്ങൾക്ക് വാസ്തവത്തിൽ എവിടെയും ഉള്ള ഈ നിർവചനങ്ങൾ നോക്കാനുള്ള കഴിവാണ്വിക്കിപീഡിയിൽ പോലും ഈ നിർവചനങ്ങൾ ഉണ്ടാകും അതിനാൽ വളരെ ലളിതമായ പദങ്ങളിൽ നിന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ശ്രമിക്കുകയാണ് ഒരു വോൾട്ടേജ് സൃഷ്ടിക്കുന്നതിനുള്ള ചില തരം വസ്തുക്കൾക്ക് ഉളള കഴിവ് അതിനാൽ ഇത് ഒരു വോൾട്ടേജ് ജനറേറ്റർ ആണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങൾ ചൂടാക്കുമ്പോഴോ തണുപ്പിക്കുമ്പോഴോ അതും പ്രധാനമാണ് അതിനാൽ ഇതാണ് പൈറോ ഇലക്ട്രിക് പൈറോഇലക്ട്രിസിറ്റി അടിസ്ഥാനപരമായി ഞാൻ കാണിച്ചത് ഇതാണ് പക്ഷേ ഒരു പിഐആർ സെൻസർ ഈ തത്ത്വം ഉപയോഗിക്കുന്നു ഇന്ന് നിങ്ങൾക്ക് ഈ പിഐആർ ലഭിക്കുന്നു ചില കാരണങ്ങളാൽ ഇതിനെ പാസീവ് ഇൻഫ്രാറെഡ് സെൻസർ എന്ന് വിളിക്കുന്നു തത്ത്വം പൈറോഇലക്ട്രിസിറ്റി അടിസ്ഥാനമാക്കിയുള്ളതാണെങ്കിലും ഇതിനെ പാസീവ് ഇൻഫ്രാറെഡ് സെൻസർ എന്ന് വിളിക്കുന്നു ഈ പിഐആർ സെൻസർ അടിസ്ഥാനപരമായി ഒരു ഇലക്ട്രോണിക് സെൻസറാണ് അതിനർത്ഥം ഐആർ ലൈറ്റ് ഐആർ താപം അതിന്റെ പരിധിയിൽ വരുമ്പോൾ വസ്തുക്കളിൽ നിന്ന് പിടിച്ചെടുക്കാനും ശ്രമിക്കുന്നു അതിനാൽ പി ഐ ആർ സെൻസറിന് ഇതുപോലെയായിരിക്കും അതിന് മുന്നിൽ ലെൻസാണ് കൂടാതെ ലെൻസ് പ്രധാനമായും പിഐആർന് നല്ല വീക്ഷണപരിധി ഉറപ്പാക്കും ഒരു പിഐആർ സെൻസറിന് ഒരു നല്ല വീക്ഷണപരിധി വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു നല്ല ലെൻസ് ഉണ്ടായിരിക്കണം വ്യത്യസ്ത തരം ലെൻസുകൾ ഉണ്ട് നമ്മൾ ഇപ്പോൾ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല പക്ഷേ പി ഐ ആർ സെൻസർ തൃപ്തികരമായി പ്രവർത്തിക്കാനുള്ള യഥാർത്ഥ തന്ത്രം ലെൻസ് ആണ് അതിനാൽ ചൂട് കണ്ടെത്തുന്നതിനും മനുഷ്യരെ കണ്ടെത്തുന്നതിനും നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവ്വം ലെൻസ് തിരഞ്ഞെടുക്കണം ഉദാഹരണത്തിന് നിങ്ങൾ ഒരു പി ഐ ആർ സെൻസർ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ മനുഷ്യരെ കണ്ടെത്തുന്നത് ഒരു പിഐആർന് എന്തുചെയ്യാൻ കഴിയും എന്നതിന്റെ നിസ്സാര തെളിവ് മാത്രമാണ് യഥാർത്ഥത്തിൽ കണ്ടുപിടിക്കുന്നത് ചലനമാണ് ചലനം ഡിറ്റക്ടറായി കുറച്ച് പ്രവർത്തനങ്ങൾ നടത്തുന്ന അപ്ലിക്കേഷനുകൾ നിങ്ങൾ പലതും കണ്ടിരിക്കാം ഉദാഹരണത്തിന് നിങ്ങൾ ഒരു ഹോട്ടലിന്റെ ഇടനാഴിയിലേക്കോ അല്ലെങ്കിൽ ഒരു പൊതു സ്ഥലത്തേക്കോ നടന്നാൽ സാധാരണ നിങ്ങൾക്ക് വൈദ്യുതി ആവശ്യമില്ലാത്ത മുറികളോ പൊതു സൌകര്യങ്ങളോ ഉണ്ടാകാം സിസ്റ്റങ്ങൾക്ക് എല്ലായ്പ്പോഴും ലൈറ്റുകൾ ഓണായിരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല മനുഷ്യരുടെ സാന്നിധ്യം അവ കണ്ടെത്തുമ്പോൾ മാത്രം ലൈറ്റുകൾ ഓണാക്കണം മനുഷ്യർ മുറിയിൽ ഉള്ളപ്പോൾ മാത്രം മനുഷ്യരുടെ സാന്നിധ്യം അവ കണ്ടെത്തുമ്പോൾ മാത്രം ലൈറ്റുകൾ ഓണാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അതിനാൽ ആദ്യം ഈ ആപ്ലിക്കേഷനുകൾ നിങ്ങൾ ഒരു പിഐആറുമായി ബന്ധിപ്പിക്കും നിങ്ങൾ പ്രധാനമായും നിങ്ങളുടെ ഇന്റർഫേസിൽinterface ഇലക്ട്രോൺ ഇലക്ട്രിക്കൽ ഭാഗം ഓണാക്കുക വിളക്കുകൾ ഓഫ് ചെയ്യുക എല്ലാം ഒരു പിഐആർ സെൻസറിലേക്ക് ഇന്റർഫേസ് ചെയ്യുന്നു യഥാർത്ഥത്തിൽ ഒരു പിഐആർ സെൻസർ ഇതുപോലുള്ള ഒരു സിഗ്നലും സൃഷ്ടിക്കുന്നു അടിസ്ഥാനപരമായി നിങ്ങൾക്ക് പിഐആർ സെൻസറിൽ രണ്ട് ഘടകങ്ങൾ ഉണ്ടാകും ഈ ഘടകങ്ങൾ അവയെ നമ്മൾ പ്ലസ് എന്നും മൈനസ് എന്നും വിളിക്കും ഒരേ അളവിലുള്ള ഐആർ താപം സിഗ്നലൊന്നും സൃഷ്ടിക്കുന്നില്ല പക്ഷേ പ്ലസ് ഉയർന്ന ഐആർ ഊർജ്ജം കാണുകയാണെങ്കിൽ അത് പോസിറ്റീവ് ഗോയിംഗ് പൾസ് സൃഷ്ടിക്കുകയും നെഗറ്റീവ്പോസിറ്റീവിനേക്കാൾ ഒരു നിശ്ചിത അളവിലുള്ള ഊർജ്ജം കാണുമ്പോൾ വിപരീതം സംഭവിക്കുകയും ചെയ്യും നെഗറ്റീവിലേക്ക് പോകുന്ന വോൾട്ടേജ് പീക്ക് ഉണ്ടാകും അതിനാൽ അടിസ്ഥാനപരമായി നിങ്ങൾക്ക് ഇതുപോലുള്ള സിഗ്നലുകൾ ലഭിക്കും സിഗ്നലുകൾ പ്രോസസ്സ് ചെയ്യപ്പെടുന്നു നിങ്ങൾ ഒരു ഡിജിറ്റൽ ഒന്ന് ഒരു ലോജിക് 1 അല്ലെങ്കിൽ ലോജിക് 0 പൂജ്യം സൃഷ്ടിക്കും ഒന്ന് മനുഷ്യൻ ഉണ്ടെന്നും പൂജ്യം മനുഷ്യൻ ഇല്ലെന്നും അർത്ഥമാക്കുന്നു അതിനാൽ ഇത് ഒരു അർത്ഥത്തിൽ ഒരു പിഐആർ സെൻസറിന് നമുക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്നത് അതിനാൽ നിങ്ങൾക്ക് നോൺ കോൺടാക്റ്റ്ഉപയോഗിക്കാം അതിനാൽ വലിയ സംഗ്രഹം എന്തെന്നാൽ നിങ്ങൾക്ക് നോൺ കോൺടാക്റ്റ് ഉപയോഗിക്കാം ക്ഷമിക്കണം ഞാൻ ഇത് വീണ്ടും വരയ്ക്കട്ടെ ഞാൻ ഇത് വീണ്ടും എഴുതട്ടെ നോൺ കോൺടാക്റ്റ് വ്യത്യസ്ത രീതികളിൽ വ്യത്യസ്ത ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് പിഐആർ ഉപയോഗിക്കാം നിങ്ങൾക്ക് തെർമോകപ്പിൾ അല്ലെങ്കിൽ തെർമോപൈൽ ഉപയോഗിക്കാം നിങ്ങൾക്ക് അളക്കാനും മറ്റും കഴിയും വ്യത്യസ്ത അപ്ലിക്കേഷനുകൾക്കായി നിങ്ങൾക്ക് വ്യത്യസ്ത തരം സെൻസറുകൾ ഉപയോഗിക്കാം അതിനാൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ വലിയ സംഗ്രഹം എന്തെന്നാൽ നിങ്ങൾ ഒരു അപ്ലിക്കേഷനായി നിങ്ങൾ ആഗ്രഹിക്കുന്ന സെൻസർ തീരുമാനിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ആദ്യം സെൻസറിന്റെ തത്വം മനസിലാക്കേണ്ടതുണ്ട് കാരണംആപ്ലിക്കേഷൻ യഥാർത്ഥത്തിൽ ആ തത്ത്വത്തെ അടിസ്ഥാനമാക്കിയുള്ള ആപ്ലിക്കേഷൻ ആണോ എന്ന് നോക്കേണ്ടത് ആവശ്യമാണ് അല്ലെങ്കിൽ അതിന്റെ പിന്നിലുള്ള ഭൌതികശാസ്ത്രവും ആവശ്യമാണ് ഞാൻ വളരെ ലളിതമായ ഒരു ഉദാഹരണം നൽകുന്നു ആപ്ലിക്കേഷൻചലന കണ്ടെത്തലിനെക്കുറിച്ചാണെങ്കിൽ പിഐആർന് ചെയ്യാൻ കഴിയുമെന്ന് നമ്മൾ പറഞ്ഞു ഞാൻ ഒരു പിഐആർ സെൻസർഉപയോഗിച്ച് കൂടാതെ ഞാൻ ചലനം 1 ചലനം ഇല്ല 0 മനുഷ്യന്റെ സാന്നിധ്യം 1 സാന്നിധ്യം ഇല്ല 0അങ്ങനെ കണ്ടുപിടിക്കും ഞാൻ ശരിക്കും പൈറോഇലക്ട്രിക് ഇഫക്റ്റിന്റെ തത്വം പൈറോഇലക്ട്രിസിറ്റി ഇഫക്റ്റ് ഉപയോഗിക്കുന്നുവെങ്കിൽ ശരീര താപനിലഅടിസ്ഥാന ശരീര താപനിലഅളക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ തെർമോപൈൽ ഉപയോഗിക്കും നിങ്ങൾ ഇപ്പോൾ തെർമോപൈൽ കാണുകയും താപനില അളക്കുകയും ചെയ്യുന്നു താപനിലയൊന്നും ഇവിടെ നിങ്ങൾ അളക്കുന്നില്ലചലന കണ്ടെത്തലിന് മാത്രമാണ് ആണ് നിങ്ങൾ ഇത് ഉപയോഗിക്കുന്നത് പക്ഷേ ഇവിടെ നിങ്ങൾ യഥാർത്ഥത്തിൽ താപനില കണ്ടെത്തുന്നതിനായിതാപനിലഅടിസ്ഥാന ശരീര താപനില അളക്കുന്നതിന് ഉപയോഗിക്കുന്നു അത് 0 1 ഡിഗ്രി കൃത്യത ആയിരിക്കണം ഇവയ്ക്കെല്ലാം നിങ്ങൾ 0 1 ഡിഗ്രി കൃത്യത നിലനിർത്തണം അതിനാൽ അത് ശരിക്കും മെഡിക്കൽ കൃത്യതയെക്കുറിച്ചാണ് ഞാൻ ഇത് മാറ്റിയെഴുതട്ടെ അതിനാൽ നിങ്ങൾ മെഡിക്കൽ കൃത്യതയെക്കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ അത് ഈ പരിധിയിലായിരിക്കണം അതിനാൽ ഉയർന്ന കൃത്യത ഉണ്ടായിരിക്കണം അതിന് വളരെ നല്ല റെസല്യൂഷനും ഉണ്ടായിരിക്കണം അത് ചിലപ്പോൾ 0 02 ഡിഗ്രി സെൽഷ്യസിന് അടുത്തായിരിക്കും ഇവ രണ്ടും പ്രത്യേകിച്ചും സെൻസറുകൾക്കുള്ള 2 പ്രത്യേക സവിശേഷതകൾ ആണ് തെർമോപൈൽ അടിസ്ഥാനമാക്കിയുള്ള സെൻസറുകൾ നിങ്ങൾ അടിസ്ഥാന ശരീര താപനില അളക്കാൻ നോക്കുകയാണെങ്കിൽ മെഡിക്കൽ കൃത്യതയ്ക്കായി നോക്കേണ്ടതുണ്ട് കൃത്യത മെഡിക്കൽ കൃത്യത പ്രധാനമാണ് പൊതുവായി നിങ്ങൾ തെർമോപൈൽ അധിഷ്ഠിത സെൻസറുകളെക്കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ റെസലൂഷൻ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതാണ് ഇവിടെ പ്രധാനം അതിനാൽ ഞാൻ ഇവിടെ എഴുതിയത് രസകരമാണ് ഞാൻ അടിസ്ഥാന ശരീര താപനില എഴുതി ശരീര താപനില നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ ശരിയല്ല അത് ശരിക്കും അടിസ്ഥാന ശരീര താപനിലയല്ല നിങ്ങൾ ഓർക്കുകയാണെങ്കിൽ അത് ഈ അടിസ്ഥാന ശരീര താപനിലയെക്കുറിച്ചുളളത് നോൺ കോൺടാക്റ്റ്അടിസ്ഥാനമാക്കിയുള്ളത് ടെംപറൽ ആർട്ടറിയാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് നിങ്ങൾ ടെമ്പറൽ ആർട്ടറി സ്കാൻ ചെയ്യാൻ പോകുന്നു ടെംപറൽ ആർട്ടറി സ്കാൻ ചെയ്യുക നിങ്ങൾ മെഡിക്കൽ ഗ്രേഡ് സെൻസറിലൂടെ നേടുന്ന ഡാറ്റയെക്കുറിച്ച് വളരെ ലളിതമായ വിശകലനം നടത്തുക തുടർന്ന് നിങ്ങൾ യഥാർത്ഥത്തിൽ ശരീര താപനില പുറത്തെടുക്കുക യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ശരീര താപനില മാത്രമാണ് താൽപ്പര്യം എങ്കിൽ അത് ചെയ്യുന്നതിനുള്ള നിരവധി മാർഗങ്ങൾ ഉണ്ട് നമ്മൾ ലിക്വിഡ് ക്രിസ്റ്റലിനെക്കുറിച്ച് സംസാരിച്ചു ഇതിനെ എൽസിടി തെർമോമീറ്ററുകൾ എന്ന് വിളിക്കുന്നു അവ വളരെ വിലകുറഞ്ഞതാണ് പക്ഷേ അവ നിങ്ങൾക്ക് മെഡിക്കൽ കൃത്യത നൽകില്ല ഇൻകുബേറ്ററിന്റെ അളവെടുപ്പിൽ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ട് അല്ലെ ഒരു ഇൻകുബേറ്ററിന്റെ ഒരു ചെറിയ സ്ഥലത്തിന്റെ അളവ് ഇൻകുബേറ്ററിനുള്ളിലെ മുഴുവൻ സ്ഥലവും മാപ്പുചെയ്യുന്നതിന് ഇവിടെയുള്ള സെൻസർ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇത് ഞാൻ ഇവിടെ സൂചിപ്പിക്കും അതിനാൽ ഇത് മുഴുവൻ സിസ്റ്റവും പൂർണ്ണമായി പ്രൊഫൈൽ ചെയ്യേണ്ടതുണ്ട് ഇൻകുബേറ്ററിന്റെ പൂർണ്ണമായ പ്രൊഫൈൽ നേടേണ്ടതുണ്ട് നിങ്ങൾ ആംബിയന്റ് അളക്കുന്നു നിങ്ങൾ അടിസ്ഥാന ശരീര താപനില അളക്കുന്നില്ല കാരണം നിങ്ങൾ ഈ താപനിലയുടെ അളവ് ഒന്നുകിൽ കുഞ്ഞിന്റെ ഊഷ്മാവ് നിലനിർത്തുന്നതിനായി ഹീറ്റർ എന്നിവ സ്വിച്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ താപനില നിയന്ത്രിക്കുന്നതിന് ഇവിടെ ഉപയോഗിക്കുന്നു അതിനാൽ നിങ്ങൾക്ക് ഇവിടെ മറ്റൊരു തരം സെൻസർ ആവശ്യമാണ് അതിനാൽ നിങ്ങൾ സെൻസറുകൾ തിരഞ്ഞെടുക്കേണ്ടത് നിങ്ങളുടെ ആപ്ലിക്കേഷനെ ആശ്രയിച്ചാണ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന വ്യത്യസ്ത തരം സെൻസറുകൾ ലഭ്യമാണ് കൂടാതെ വളരെ പ്രധാനമായി നിങ്ങൾ ഡാറ്റ ഷീറ്റുകൾ ശ്രദ്ധാപൂർവ്വം നോക്കേണ്ടതുണ്ട് നിങ്ങൾ റെസലൂഷൻ നോക്കേണ്ടതുണ്ട് നിങ്ങൾ കൃത്യത നോക്കേണ്ടതുണ്ട് നിങ്ങൾ സെൻസിറ്റിവിറ്റി നോക്കേണ്ടതുണ്ട് താപ സെൻസിറ്റിവിറ്റി അടിസ്ഥാനപരമായി ശരിയാണ് സാധാരണയായി താപ സെൻസിറ്റിവിറ്റിയെ നോയ്സിന് തുല്യമായ താപനില വ്യത്യാസം അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ അതിനാൽ നിങ്ങൾ ശ്രദ്ധിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പാരാമീറ്ററാണ് ഇത് അതിനാൽ നിങ്ങൾ വ്യത്യസ്ത അപ്ലിക്കേഷനുകൾക്കായി ഒരു താപനില സെൻസർ ഉപയോഗിക്കാൻ ശ്രമിക്കുമ്പോൾ നിർമ്മിക്കാൻ ശ്രമിക്കുമ്പോൾ ഇവയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട നിർണായകമായ സവിശേഷതകൾ എന്നാണ് എന്റെ അഭിപ്രായം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഉദാഹരണം നൽകാം നമ്മൾ ഈ പ്രഭാഷണം ആരംഭിച്ചത് ഈ ബെയറിംഗിന്റെ ഒരു ഉദാഹരണം നൽകിക്കൊണ്ടാണ് നിങ്ങൾ ബെയറിംഗ് തിരിക്കാൻ ആരംഭിക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിയോഡൈമിയം കാന്തങ്ങൾ ഉണ്ട് നിങ്ങൾ ബെയറിംഗ് ചൂടാക്കുന്നു അല്ലെങ്കിൽ ബെയറിംഗ് ചൂടാകുമ്പോൾ കാന്തികക്ഷേത്രവും മാറുന്നു കാന്തികക്ഷേത്രത്തിലെ ഈ മാറ്റം ഇവിടെ ഇരിക്കുന്ന ഹാൾ സെൻസർ പ്രധാനമായും പിടിച്ചെടുക്കുന്നു ഒരുപക്ഷേ ഞാൻ ഈ രീതിയിൽ ഇടണം അങ്ങനെ നിങ്ങൾ യഥാർത്ഥത്തിൽ ഒരു ചിപ്പ് കാണും ആ ചിപ്പ് പ്രധാനമായും ഈ ചെറിയ പിസിബിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഈ ചെറിയ പിസിബിയിൽ അടിസ്ഥാനപരമായി വളരെ രസകരമായ ഘടകങ്ങളുമുണ്ട് മാത്രമല്ല അടിസ്ഥാനപരമായി ഡിസൈൻ ഐഒടി സിസ്റ്റം എന്നിവ അർത്ഥമാക്കുന്നത് എന്താണെന്നറിയാൻ നിങ്ങൾക്ക് ഒരു ആശയം നൽകുന്നതിന് ഈ ചെറിയ പിസിബിയിൽ അടങ്ങിയിരിക്കുന്ന ഈ മനോഹരമായ ഘടകങ്ങളെ പറ്റിയും നമ്മൾ വിവരിക്കും രസകരമായത് എന്താണ് കഴിഞ്ഞപ്രാവശ്യംനമ്മൾ ഈ കോയിൽ ഇവിടെ പരാമർശിച്ചു ഇതിനെ വീണ്ടും വിന്യസിക്കാൻ അനുവദിക്കുക ഉൽപ്പാദനത്തിനായി ഉപയോഗിക്കുന്ന ഈ കോയിൽ നിങ്ങൾക്ക് കറങ്ങുന്ന കാന്തികമണ്ഡലമുണ്ട് ഇവിടെ ഈ ബെയറിംഗ് മൂലമുണ്ടാകുന്ന ഫീൽഡ് കറങ്ങുന്നു തുടർന്ന് നിങ്ങൾക്ക് ഈ ആർക്ക് നിയോഡീമിയം കാന്തങ്ങൾ ഉണ്ട് ഈ കോയിൽ ഉപയോഗിച്ച് കാന്തികക്ഷേത്രബലത്തിന്റെ രേഖകളെ മുറിച്ചുകൊണ്ട് അടിസ്ഥാനപരമായി ഒരു ചെറിയ വോൾട്ടേജ് ഇവിടെ വികസിപ്പിച്ചെടുക്കുന്നു അത് അനുയോജ്യമായ വൈദ്യുതി കണ്ടീഷനിംഗിന് ശേഷം ഈ ബോർഡിന് യഥാർത്ഥത്തിൽ പവർ നൽകാനായി ഉപയോഗിക്കാൻ കഴിയും എല്ലാ ഊർജ്ജവും യഥാർത്ഥത്തിൽ കപ്പാസിറ്ററിൽസംഭരിക്കപ്പെടുന്നു നിങ്ങൾ ഇവിടെ കാണുന്ന ഒരു സൂപ്പർ കപ്പാസിറ്ററാണ് പ്രധാനമായും പവർ ചാർജ് ഊർജ്ജം എന്നിവ കൈവശം വയ്ക്കുകയും നിലനിർത്തുകയും ചെയ്യുന്നത് ഈ ഇലക്ട്രോണിക്സ് പ്രവർത്തിക്കുന്നതിനും ബാൾ ബെയറിംഗിന്റെ താപനില ഒരു ഡ്രൈവറുടെ സിസ്റ്റത്തിന്റെ ഡാഷ്ബോർഡിൽ ലഭ്യമാക്കുന്നതിനും വേണ്ടിയാണിത് ഈ ബോർഡിനെക്കുറിച്ചുള്ള നല്ല കാര്യവും കൃത്യമായി അതിൽ എന്താണ് ഉള്ളതെന്നും അതിനാൽ നമുക്ക് നോക്കാം അടുത്ത സെറ്റ് പ്രഭാഷണങ്ങൾക്കായി ഇത് ബന്ധിപ്പിക്കണം അതിൽ നമ്മൾ പവർ വിതരണ വിഭാഗം പ്രത്യേകമായി ആരംഭിക്കേണ്ടതുണ്ട് അതിനാൽ ഇവിടെ കാണുന്ന സിസ്റ്റത്തിന്റെ ഈ ഉദാഹരണം നോക്കാം ആ പരീക്ഷണാത്മക ജിഗിന് വേണ്ടി നമ്മൾ നടത്തിയ അളവെടുപ്പ് ഫലങ്ങൾ ഞാൻ കാണിച്ചുതരാം ഈ 2 ചിത്രങ്ങൾ ഇവിടെ കാണിക്കുന്നു ആദ്യത്തേത് താപനില സൈക്ലിംഗ് ഗ്രാഫ് ആണ് കാന്തിക സൈക്ലിംഗ് ഗ്രാഫ്ആണ് ഇടത് വശത്ത് നിങ്ങൾ ഇവിടെ കാണുന്നത് മാഗ്നറ്റിക് സൈക്ലിംഗ് ഗ്രാഫ്ആണ് ഇവ രണ്ടും തമ്മിൽ പരസ്പര ബന്ധമില്ലെങ്കിൽ കാന്തികക്ഷേത്രം നേരിട്ട് ഉപയോഗിച്ച് ബോൾ ബെയറിംഗിന്റെ താപനില അളക്കാൻ നിങ്ങൾക്ക് ഒരു വഴിയുമില്ല അതിനാൽ നമ്മൾ ഈ അളവ് 40 മിനിറ്റോ അതിൽ കൂടുതലോ നമ്മൾ അളക്കുകയും നമ്മൾ ബെയറിംഗ് റേസ് ചൂടാക്കുകയും ചെയ്തു താപനില 30 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് 120 ഡിഗ്രി സെൽഷ്യസിലേക്ക് ഉയരാൻ കാരണമായി ഇത് ഇപ്പോൾ 120 ഡിഗ്രിയാണ് അതിനാൽ ഇത് ഇവിടെ 120 ഡിഗ്രിയാണ് ഇത് ഇവിടെ 30 ഡിഗ്രിയാണ് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇത് താപനില സൈക്ലിംഗ് ഗ്രാഫുമായിബന്ധപ്പെട്ടതാണ് ഇത് മാഗ്നറ്റിക് സൈക്ലിംഗ് ഗ്രാഫുമായിബന്ധപ്പെട്ടതാണ് ഞാൻ യൂണിറ്റുകളുടെ വിശദാംശങ്ങളിലേക്ക് പോലും കടക്കില്ലെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും എന്നാൽ അനലോഗ് ടു ഡിജിറ്റൽ കൺവെർട്ടർമൂല്യങ്ങളേക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയും അത് യഥാർത്ഥത്തിൽ 450 ൽ നിന്ന് ഏകദേശം 464 ലേക്ക് മാറി 455 ലേക്ക് പോയി ഇവ 3 പോയിന്റുകളാണ് കാന്തികക്ഷേത്രത്തിലെ മാറ്റത്തിന്റെ പ്രൊഫൈൽ ബെയറിംഗിന്റെ യഥാർത്ഥ താപനിലയിലെ മാറ്റത്തെ അനുകരിക്കുന്നു ഇത് ചെയ്യുന്നത് എളുപ്പമല്ല കാരണം ഈ അളവ് നിർണ്ണയിക്കാൻ നിങ്ങൾക്ക് ഒരു തെർമോമീറ്റർ ഉപയോഗിക്കേണ്ടതുണ്ട് അതിനാൽ നമ്മൾ ഒരു തെർമോമീറ്റർ ഉപയോഗിക്കുന്നു കോൺടാക്റ്റ് അടിസ്ഥാനമാക്കിയുള്ള ഒരു വ്യാവസായിക തെർമോമീറ്റർ ദയവായി ശ്രദ്ധിക്കുക നമ്മൾ ഐആർ ഉപയോഗിച്ചിട്ടില്ല നമ്മൾ ഒരു കോൺടാക്റ്റ് അടിസ്ഥാനമാക്കിയുള്ളതെർമോമീറ്റർ ഉപയോഗിച്ചു ഇത് തീർച്ചയായും ഹാൾ സെൻസർമൂല്യങ്ങൾ മാത്രമാണ് ഇത് ഹാൾ സെൻസറിൽ നിന്ന് നേരിട്ട് വരുന്നു ഹാൾ സെൻസറിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട് ക്ഷമിക്കണം ശരിയായി ഞാൻ എഴുതട്ടെ തെർമോമീറ്ററിൽ നിന്നുള്ള ഔട്ട്പുട്ട് ആണ് അതിനാൽ ഇത് വീണ്ടും ഒരു രസകരമായ ഫലം നിങ്ങൾ ഇപ്പോൾ കാണുകയാണെങ്കിൽ ഇത് അല്പം വ്യത്യസ്തമായ രീതിയിൽ കാണിച്ചിരിക്കുന്ന അതേ ഫലമാണ് വൈ അക്ഷം യഥാർത്ഥത്തിൽ താപനിലയും എക്സ്അക്ഷം എ ഡി സി മൂല്യം ആണെന്നും നിങ്ങൾക്ക് കാണാൻ കഴിയും കോൺടാക്റ്റ് അടിസ്ഥാനമാക്കിയുള്ള തെർമോമീറ്റർ ഉപയോഗിച്ച് നമ്മൾ അളന്ന ഭൌതിക താപനിലയാണിത് കാന്തികക്ഷേത്രം പരോക്ഷ രീതിയിൽ അളക്കുന്നതിലൂടെ നമുക്ക് ലഭിച്ച എഡിസി മൂല്യങ്ങളാണിവ 580 ന്റെ ചില പ്രാരംഭ മൂല്യത്തിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് ഏകദേശം 587 ആയിഎഡിസി മൂല്യങ്ങളിൽ നല്ലൊരു മാറ്റമുണ്ടെന്ന് നിങ്ങൾക്ക് കാണാം അതിനാൽ 580 മുതൽ 587 വരെ ഒരു നല്ല പരിധിയായിരുന്നു താപനിലയിലെ മാറ്റവുമായി ബന്ധപ്പെട്ട എഡിസി മൂല്യങ്ങളിലെ മാറ്റം അതിൽ കാണാൻ നമ്മൾക്ക് കഴിഞ്ഞു നിങ്ങൾ അല്പം ആശയക്കുഴപ്പത്തിലായേക്കാം എന്തുകൊണ്ടാണ് ഞാൻ മാറ്റിയത് എന്തുകൊണ്ടാണ് ഇവിടെ മാറ്റം വരുത്തിയത് ഇവിടെ 450 എന്ന് ഞാൻ പറഞ്ഞു 400 ലും ഏകദേശം 464 ലും പോയി 455 ലേക്ക് തിരിച്ചു ഈ ഫലത്തിൽ നമ്മൾക്ക് വ്യത്യസ്ത മൂല്യങ്ങൾ കിട്ടുന്നു ഇവ രണ്ട് വ്യത്യസ്ത സമയങ്ങളിൽ സംഭവിച്ചതാണ് ഇതിന് കാരണം അവ എഡിസി മൂല്യങ്ങൾ പ്രധാനമായും കാന്തങ്ങൾ ബെയറിംഗിൽ എങ്ങനെ ക്രമീകരിചിരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും അതിനാൽ ഈ ചെറിയ വ്യതിയാനം മൂല്യങ്ങളിലെ ഈ ചെറിയ മാറ്റം ആശ്ചര്യകരമല്ല എന്താണ് പ്രധാനം പ്രാരംഭ മൂല്യത്തിൽ നിന്ന് നിങ്ങൾ ഒരു അളവെടുപ്പ് ആരംഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എ ഡി സി മൂല്യത്തിൽ ഒരു മാറ്റം കാണാൻ കഴിയണം ഇത് പ്രധാനമാണ് താപനില വർദ്ധിക്കുന്നതിനനുസരിച്ച് കാന്തികതയിൽ ഒരു മാറ്റം ഉണ്ടായിരിക്കണം താപനില കുറയുമ്പോൾ ഈ എഡിസി മൂല്യം ഉയരണം അതാണ് വളരെ വളരെ പ്രധാനം അതിനാൽ നിങ്ങൾ അത്തരമൊരു അളവ് നടത്തിയാൽ അത് ഒരു അളവെടുപ്പുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒന്നിൽ നിങ്ങൾക്ക് ചില മൂല്യങ്ങൾ ലഭിക്കുന്നു ഒപ്പം മറ്റൊരു തവണ നിങ്ങൾക്ക് വ്യത്യസ്ത മൂല്യങ്ങൾ ലഭിക്കും അതിൽ ആശ്ചര്യപ്പെടേണ്ടതില്ല നമ്മൾ ഇത് എങ്ങനെ പ്രവർത്തിപ്പിച്ചു ഇത് വളരെ നിർണായകമായ ഒരു സ്ലൈഡാണ് മുഴുവൻ സിസ്റ്റത്തിന് ശരിക്കും അങ്ങനെ ചെയ്യാൻ കഴിയുമെന്ന് നമ്മൾ എങ്ങനെ ഉറപ്പിച്ചു ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതന്നനിങ്ങളോട് സൂചിപ്പിച്ച ഈ പിസിബി അതിൽ എന്താണ് ഉള്ളത് വ്യത്യസ്ത ബ്ലോക്കുകൾ നമുക്ക് വിശദമായി നോക്കാം അതിനാൽ ഞാൻ ഈ പിസിബി തിരികെ വെക്കട്ടെ